ക്ലോക്കിംഗിനെക്കുറിച്ചും ക്ലോക്ക് വിതരണത്തെക്കുറിച്ചുംഞങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുന്നു അതിനാൽ ചില ടെർമിനോളജികൾഅവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നു തുടർന്ന് ഞങ്ങൾ ചില യഥാർത്ഥ ക്ലോക്ക് വിതരണത്തിലേക്ക് നീങ്ങും അല്ലെങ്കിൽ ലേഔട്ട് അൽഗോരിതം അല്ലെങ്കിൽ തന്ത്രങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം അതിനാൽ ഞങ്ങൾ പിന്നീട് ചില ചർച്ചകളിൽ ഉപയോഗിക്കേണ്ട ചില പദങ്ങൾ അവതരിപ്പിക്കുന്നു അതിനാൽ ഞങ്ങൾ ഒരു ക്ലോക്ക് നെറ്റ്വർക്ക് ഒരു ക്ലോക്ക് നെറ്റ് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് റൂട്ടിംഗ്ഉദാഹരണം n പ്ലസ് 1 ടെർമിനലുകളുള്ള ഒരു നെറ്റ് പ്രതിനിധീകരിക്കുന്നു അവിടെ S0 എന്ന ഒരു ഉറവിടവും സിങ്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന n ടെർമിനലുകളും ഉണ്ട് അതിനാൽ രേഖാചിത്രപരമായി ഇത് ഇതുപോലെ കാണപ്പെടും അതിനാൽ എനിക്ക് ഒരു സ്രോതസ്സ്⅞ S0 ഉണ്ട് കൂടാതെ S1 S2 മുതൽ Sn വരെ n സിങ്കുകൾ ഉണ്ട് അതിനാൽ എനിക്ക് ഇതുപോലൊരു നെറ്റ് ലേഔട്ട് ചെയ്യണം എസ് 1 എല്ലാ എസ് 1 എസ് 2 മുതൽ എസ്എൻ വരെ ബന്ധിപ്പിക്കണം ഇത് എസ് ആണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഒരു സെറ്റ് ആണ് അതിനാൽ ഒരു ക്ലോക്ക് നെറ്റ് നൽകി അതിനാൽ ഞങ്ങൾ ഒരു ക്ലോക്ക് റൂട്ടിംഗ്പരിഹാരത്തിനായി തിരയുന്നു കാരണം ആത്യന്തികമായി ക്ലോക്ക് ഉറവിടമായ S0 ൽ നിന്ന് ടെർമിനലുകൾ ബന്ധിപ്പിക്കുന്നതിന് ഒരു കൂട്ടം വയർ സെഗ്മെന്റുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഇതാണ് S0 S1 S2 Sn എന്നിവയുമായി ബന്ധിപ്പിക്കേണ്ട പ്രശ്നം പക്ഷേ ഉദാഹരണത്തിന് നിരവധി മാർഗങ്ങളുണ്ട് എനിക്ക് S0 എന്ന് പറയാൻ കഴിയും എനിക്ക് അവയെല്ലാം നേർരേഖകളിലൂടെ ബന്ധിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് ലംബമായും ബന്ധിപ്പിക്കാനും കഴിയും ഇതുപോലുള്ള തിരശ്ചീന രേഖാ വിഭാഗങ്ങൾ അതിനാൽ നിരവധി മാർഗങ്ങളുണ്ട് അതിനാൽ ഞാൻ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന അവസാന പരിഹാരമാണിത് ഇത് ഞാൻ ക്ലോക്ക് റൂട്ടിംഗ് പരിഹാരമായി പരാമർശിക്കുന്നു അതിനാൽ ക്ലോക്ക് റൂട്ടിംഗ് സൊല്യൂഷൻ യഥാർത്ഥത്തിൽ ഈ കണക്ഷൻ ഉണ്ടാക്കാൻ ഞങ്ങളെ അനുവദിക്കുന്ന വയർ സെഗ്മെന്റുകളുടെ കൂട്ടമാണ് ഇപ്പോൾ ഈ ക്ലോക്ക് റൂട്ടിംഗ് പരിഹാരത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന 2 വ്യത്യസ്ത ഉപ പ്രശ്നങ്ങളുണ്ട് ഒരെണ്ണം ടോപ്പോളജിഎന്നും മറ്റൊന്ന് ജ്യാമിതീയ ഉൾച്ചേർക്കൽഎന്നും പരാമർശിക്കപ്പെടുന്നു ഉദാഹരണത്തിന്റെ പേര് ഉപയോഗിച്ച് ഞാൻ ചിത്രീകരിക്കുന്നതുപോലെ എന്നാൽ ആദ്യം അത് അവബോധപൂർവ്വം വിശദീകരിക്കട്ടെ ടോപ്പോളജി എന്നാൽ ഞാൻ സംസാരിച്ച ക്ലോക്ക് ട്രീ എന്നാണ് അതിനാൽ ക്ലോക്ക് ട്രീ എങ്ങനെ കാണപ്പെടും എന്നത് എന്റെ ടോപ്പോളജി ആയിരിക്കും ഓരോ ഡ്രൈവറും ഡ്രൈവ് ചെയ്യുന്നത് 2 മറ്റ് ഡ്രൈവറുകളെയോ അല്ലെങ്കിൽ മറ്റ് 4 ഡ്രൈവർമാരെയോ ആണ് അത് ഞാൻ സംസാരിക്കുന്ന ടോപ്പോളജി ആയിരിക്കും എനിക്ക് ടോപ്പോളജി ലഭിച്ചുകഴിഞ്ഞാൽ എന്റെ ഫിസിക്കൽ ക്ലോക്ക് ടെർമിനലുകൾസിങ്കുകൾ ജ്യാമിതീയമായി ഉൾക്കൊള്ളുന്ന ഈ മരത്തിന്റെ ചില ലീഡ് നോഡുകളുമായി ഞാൻ ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ കൃത്യമായി ജ്യാമിതീയമായി ഞാൻ ഇത് എവിടെയാണ് സ്ഥാപിക്കുക വൃക്ഷം പൊതുവായതാണ് ക്ലോക്ക് ടെർമിനലുകളുടെ കൃത്യമായ സ്ഥാനത്തെ ആശ്രയിച്ച് ജ്യാമിതീയ ഉൾച്ചേർക്കൽകൂടുതൽ വ്യക്തമാണ് അതിനാൽ ഞാൻ ഒരു ക്ലോക്ക് ട്രീ ടോപ്പോളജിപറയുമ്പോൾ അത് സിങ്കുകളുടെ സെറ്റിന് അനുയോജ്യമായ എൻ ലീഫ് കളുള്ള ഒരു വേരൂന്നിയ ബൈനറി മരമാണ് ഞാൻ പറഞ്ഞതുപോലെ ആന്തരിക നോഡുകൾ ഞാൻ അവയെ തിരശ്ചീനവും ലംബവുമായ ലൈൻ സെഗ്മെന്റുകളിലൂടെ ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു സ്റ്റെയ്നർ ട്രീsteiner tree ഇഷ്ടപ്പെടും അതിനാൽ മരത്തിന്റെ എല്ലാ ആന്തരിക നോഡുകളും സ്റ്റെയ്നർ പോയിന്റുകളായിപരാമർശിക്കപ്പെടും അവ ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഡയഗ്രമാറ്റിക്കലായി എന്നെ ചിത്രീകരിക്കാൻ അനുവദിക്കുക എനിക്ക് ഒരു ക്ലോക്ക് റൂട്ടിംഗ് പ്രശ്നമുണ്ടെന്ന് പറയട്ടെ ഇതൊരു ചെറിയ ചിപ്പാണെന്ന് പറയട്ടെ അതിനാൽ ഞാൻ കാണിക്കുന്നത് ഇവ S1 S2 S3 S4 S5 S6 എന്നിവ ബന്ധിപ്പിക്കേണ്ട ടെർമിനലുകളാണ് കൂടാതെ എന്റെ ക്ലോക്ക് ഉറവിടം ഇവിടെ S0 കേന്ദ്രത്തിൽ എവിടെയോ ഉണ്ടെന്ന് കരുതുക ഇത് S0 ആണ് ശേഷിക്കുന്നവ ക്ലോക്ക് സിങ്കുകളാണ് ഇത് എന്റെ ക്ലോക്ക് റൂട്ടിംഗ് പ്രശ്ന ഉദാഹരണമാണ് ഇപ്പോൾ ആദ്യം നമ്മൾ ഒരു ടോപ്പോളജിയിൽ എത്തിച്ചേരുന്നു എന്നതാണ് ഞങ്ങൾ പറയുന്നത് ഇതുപോലുള്ള ഒരു ടോപ്പോളജി ഉണ്ടായിരിക്കട്ടെ S0 2 ഇന്റർമീഡിയറ്റ് നോഡുകളുമായിബന്ധിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ ഈ ഇന്റർമീഡിയറ്റ് നോഡുകൾ ഓരോന്നും ഡ്രൈവറുകളെ പരാമർശിക്കാൻ കഴിയും ഈ U1 ഉം U2 ഉം ഡ്രൈവറുകളാകാം അതിനാൽ ഈ U1 ന് ഈ S1 S2 നേരിട്ട് ഓടിക്കാൻ കഴിയും ഈ U2 ന് 2 ഡ്രൈവറുകൾ കൂടി U3 U4 ഓടിക്കാൻ കഴിയും അവയിൽ ഓരോന്നും 2 എണ്ണം ഓടിക്കുന്നു അതിനാൽ ഈ കണക്ഷൻ ടോപ്പോളജിയിൽ അതിനാൽ ഓരോ നോഡും പരമാവധി 2 നോഡുകൾ വരെ ഡ്രൈവ് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഞങ്ങൾ ബഫറുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ബഫർ ഡിസൈൻ അങ്ങനെയായിരിക്കും അതിനാൽ ഇത് പരമാവധി 2 മറ്റ് സിഗ്നൽ ലൈനുകൾ ഓടിക്കും അതിനാൽ ഫാൻ ഔട്ട് രണ്ട് ആയിരിക്കും അതിനാൽ ബഫറുകൾ താരതമ്യേന ചെറുതായിരിക്കും ഇപ്പോൾ ഈ കണക്ഷൻ ടോപ്പോളജിയിൽ അതിനാൽ ഈ കണക്ഷൻ ടോപ്പോളജി നമ്മുടെ യഥാർത്ഥ പ്രശ്നത്തെ ഉൾക്കൊള്ളുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലുള്ള ഉൾച്ചേർക്കാനുള്ള ഒരു പരിഹാരമാണിത് ഇത് ഇതിനകം ഉണ്ടായിരുന്ന പോയിന്റുകളാണ് ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കണക്ഷൻ ടോപ്പോളജിയാണ് ഇത് നേടാൻ ഞങ്ങൾ ചെയ്യുന്ന സാധ്യമായ ഒരു പരസ്പരബന്ധമാണിത് ഇത് S0 മുതൽ U1 വരെയും S1 S2 വരെയും പറയട്ടെ അതിനാൽ ഞാൻ ഇത് ഇതുപോലെ കാണിക്കുന്നു ഈ നോഡ് 1 ഉം ഈ S0 ഉം ഇത് S1 S2 എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു തുടർന്ന് U2 U3 U4 എന്നിവയിലേക്ക് പോകുന്നു ഇത് U2 ആണെന്ന് പറയട്ടെ ഇത് ഇവിടെ U3 U4 ഇവിടെ പോകുന്നു U3 S3 S4 S5 S6 എന്നിവയിലേക്ക് പോകുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഉൾച്ചേർക്കൽ നിങ്ങൾക്ക് കൃത്യമായ കണക്ഷനുകൾ മാത്രമല്ല ബഫറുകൾ സ്ഥാപിക്കേണ്ട സ്ഥലവും ലഭിക്കും U1 U2 U3 U4 ഇത് ബഫറുകളുടെ സ്ഥാനവും അതുപോലെ കാണിക്കുന്ന പരിഹാരമാണ് ഇന്റർകണക്ഷൻലൈനുകളുടെ ജ്യാമിതി അതിനാൽ നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്ന ക്ലോക്ക് സ്കൂ ക്ലോക്ക് skew അതിനാൽ ക്ലോക്ക് സിഗ്നൽ എത്തിച്ചേരുന്ന സമയങ്ങളിലെ പരമാവധി വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത് പോലെ എനിക്ക് ഒരു ക്ലോക്ക് സോഴ്സ് എസ് 0 ഉണ്ടെന്ന് ഞാൻ പറയുന്നത് അതിനാൽ എനിക്ക് ധാരാളം സിങ്കുകൾ ഉണ്ട് S1 S2 പൊതുവായി Si n സിങ്കുകൾ ഉണ്ട് അതിനാൽ ഉറവിടവും സിങ്കുംതമ്മിലുള്ള കാലതാമസം ഞാൻ t S0 Si എന്ന് വിളിക്കുന്നു അതിനാൽ ഞാൻ ഈ കാലതാമസം എല്ലാ എസ് 0 സി ജോഡികളിലും എസ് 0 എസ് 1 എസ് 0 എസ് 2 എസ് 0 എസ് 3 എന്നിങ്ങനെ കണക്കാക്കുകയും അവയിൽ പരമാവധി എടുക്കുകയും ചെയ്താൽ അത് എനിക്ക് പരമാവധി സ്ക്യൂ റൈറ്റ് നൽകും അതിനാൽ ഗണിതശാസ്ത്രപരമായി ഞങ്ങൾ ഇത് പ്രകടിപ്പിക്കുന്നത് മൊത്തം ചരിവ് വ്യത്യാസങ്ങളുടെ പരമാവധി ആയിരിക്കും അതിനാൽ ഏതെങ്കിലും ജോഡി i j എന്നിവ തമ്മിലുള്ള കാലതാമസത്തിലെ പരമാവധി വ്യത്യാസം എന്താണ് അതിനാൽ S0 Si S0 Sj എന്നിവയ്ക്കിടയിലുള്ള കാലതാമസം എല്ലാ Si Sj ജോഡികളിലുമുള്ള അവയുടെ വ്യത്യാസം പരമാവധി ഇത് എന്റെ പരമാവധി ക്ലോക്ക് സ്കൂ ആയി നിർവചിക്കപ്പെടും ഇപ്പോൾ ഞങ്ങൾ 2 ടെർമിനോളജികൾനിർവ്വചിക്കുന്നു പ്രാദേശിക ചരിവ് ആഗോള ചരിവ് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം കാണുക ചിപ്പിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്ന ക്ലോക്ക് സിഗ്നൽ പറയട്ടെ എനിക്ക് ഒരു ചിപ്പ് ഉണ്ട് ഇവ ഇവിടെ ചില ക്ലോക്ക് ടെർമിനലുകൾ ആണെന്ന് കരുതുക ഇവിടെ ചില ക്ലോക്ക് ടെർമിനലുകൾ ഉണ്ട് ഇവിടെ ചില ക്ലോക്ക് ടെർമിനലുകൾ ഉണ്ട് ഈ ക്ലോക്ക് ടെർമിനലുകൾ ചില ഫ്ലിപ്പ് ഫ്ലോപ്പുകളെയോ ചില സംഭരണ ഘടകങ്ങളെയോ പരാമർശിക്കുന്നത് കാണുക ഇപ്പോൾ ഞാൻ ഈ 5 ഡോട്ടുകൾ ഇവിടെ കാണിച്ചുവെന്ന് അനുമാനിക്കാം അവ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ചില സ്റ്റോറേജ് സെല്ലുകളുമായി യോജിക്കുന്നു ഇവ 4 പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ചില സ്റ്റോറേജ് സെല്ലുകളെ സൂചിപ്പിക്കുന്നു അവ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള സ്റ്റോറേജ് സെല്ലുകളെ സൂചിപ്പിക്കുന്നു അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിയായ പ്രവർത്തനത്തിനായി അതിനാൽ ഓരോ സോണിലും പരസ്പരം ആശ്രയിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ പരസ്പരം വളരെയധികം ചരിവ് ഉണ്ടാകരുതെന്ന് ഞങ്ങൾ ഉറപ്പാക്കണം അതുപോലെ ഈ മേഖലയിലോ ഈ മേഖലയിലോ ഈ ചരിവ് പരിമിതപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റും എടുക്കുകയാണെങ്കിൽ അവ 2 സംഭരണ ഘടകങ്ങളുമായി പൊരുത്തപ്പെടുന്നു പക്ഷേ അവ നേരിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ നിങ്ങളുടെ സർക്യൂട്ട് പ്രവർത്തനത്തെ ബാധിക്കാത്ത ഈ 2 പോയിന്റുകൾക്കിടയിൽ ഗണ്യമായ ചരിവ് ഉണ്ടെങ്കിൽ പോലും അതിനാൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സൈദ്ധാന്തികമായി വക്രത ഒരു നല്ല കാര്യമല്ലെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ ഒരു മോശം കാര്യമാണ് പക്ഷേ എല്ലാ വളവുകളും ഒരുപോലെ പ്രധാനമായിരിക്കില്ല സർക്യൂട്ടിന്റെ ചില പ്രാദേശിക ഏരിയയുമായി പൊരുത്തപ്പെടുന്ന ചരിവുകൾ ഒരു പൈപ്പ്ലൈൻ സംഭരണം ആ ഘട്ടങ്ങൾക്കിടയിലുള്ള കോണുകൾക്കിടയിലുള്ള കോമ്പിനേഷണൽ സർക്യൂട്ടുകളുള്ള ഘട്ടങ്ങൾ നിങ്ങൾക്ക് പ്രധാനമാണ് എന്നാൽ ഒരു പൈപ്പ്ലൈനും മറ്റൊരു പൈപ്പ്ലൈനും മറ്റേതെങ്കിലും അവയ്ക്ക് ചില പ്രാധാന്യമുള്ള ചരിവ് ഉണ്ടായിരിക്കാം അവരുടെ ഇടയിൽ അതും ഒരു പ്രശ്നമാകില്ല ശരിയാണ് അതിനാൽ ലോക്കൽ സ്കേ ഞങ്ങൾ ഇത് നിർവ്വചിക്കുന്നു ഇത് ക്ലോക്ക് വരവ് സമയത്തിലെ പരമാവധി വ്യത്യാസമാണ് പ്രാദേശികമായി അർത്ഥമാക്കുന്നത് ഒരു കൂട്ടം സിങ്കുകളുടെ ക്ലോക്ക് പിന്നുകളിൽ ബന്ധപ്പെട്ട സിങ്കുകൾ എന്നാൽ അവ തമ്മിൽ എങ്ങനെയെങ്കിലും ബന്ധിപ്പിച്ചിരിക്കുന്ന സംഭരണ സെല്ലുകൾ എന്നാണ് അതിനാൽ സാധാരണ ലോക്കൽ സ്കൂ കുറച്ച് ദൂരത്തിലുള്ള പരിമിതമായ ദൂരത്തിലുള്ള സിങ്കുകളുമായി പൊരുത്തപ്പെടുന്നു ഒരു സിഗ്നൽ പാത്ത്വഴി ബന്ധിപ്പിച്ചിട്ടുള്ള സ്റ്റോറേജ് ഘടകങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അവ പലപ്പോഴും പരാമർശിക്കുന്നു എന്താണ് ഒരു സിഗ്നൽ പാത്ത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിലേക്ക് പോകുന്നു ചില കോമ്പിനേഷണൽ സർക്യൂട്ട്വഴി അതിനെ ഡയറക്റ്റഡ് സിഗ്നൽ പാത്ത് റൈറ്റ്എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് പ്രാദേശിക വക്രതയാണ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ആഗോള ചരിവിലേക്ക് നോക്കുകയാണെങ്കിൽ ആഗോള അർത്ഥം ഞാൻ ചിപ്പിലുടനീളം നോക്കുന്നു എത്തിച്ചേരൽ സമയങ്ങളിലെ പരമാവധി വ്യത്യാസം ഏതെങ്കിലും 2 സിങ്കുകളുമായി യോജിക്കുന്നു അവ ബന്ധപ്പെട്ടിരിക്കാം അവ ബന്ധമില്ലാത്തതാകാം അതിനാൽ മുഴുവൻ ക്ലോക്ക് വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചെറിയതും നീളമേറിയതുമായ ഉറവിട സിങ്ക് പാതകൾ തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ നോക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു ശൂന്യതയെ പരാമർശിക്കുമ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഗ്ലോബൽ സ്ക്യൂഎന്നാണ് പരാമർശിക്കുന്നത് എന്നാൽ ഒരു പ്രായോഗിക പ്രശ്നത്തിന് ലോക്കൽ സ്കൂ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു കാരണം മികച്ച പ്രകടനത്തിനായി നിങ്ങൾ ആഗോളതലത്തിൽ സ്ക്യൂ കുറയ്ക്കേണ്ടതില്ല നിങ്ങൾക്ക് പ്രാദേശിക ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും പ്രാദേശിക ഘടകങ്ങളിലുള്ളവയിൽ മാത്രം ചരിവ് പരിമിതപ്പെടുത്താൻ ശ്രമിക്കുക ശരിയാണ് നല്ലത് അതിനാൽ ക്ലോക്ക് സ്കീവിനുള്ള ചില പദങ്ങൾ ക്ലോക്ക് ട്രീ റൂട്ടിംഗ്നന്നായി ആദ്യ ഉപ പ്രശ്നം ഇത് തീർച്ചയായും അഭികാമ്യവും അനുയോജ്യമായ സാഹചര്യം 0 വക്രവുമാണ് അതിനാൽ ഞങ്ങൾ ഒരു 0 സ്കൂ വൃക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഒരു സ്രോതസ്സിൽ നിന്ന് ഞാൻ ഒരുതരം വൃക്ഷം സൃഷ്ടിക്കുന്നുവെന്ന് ഞാൻ പറയുന്നത് പോലെ അതിനാൽ ഞാൻ ബഫറുകൾ കാണിക്കുന്നില്ല ഇവിടെ ബഫറുകളും ഉണ്ടാകും അതിനാൽ 4 സിങ്കുകളുള്ള ഒരു ചെറിയ ഉദാഹരണം നമുക്ക് എടുക്കാം അത് ഒരു 0 ചരിഞ്ഞ മരം ZST ആണെന്ന് ഞാൻ പറയുമ്പോൾ ഇതിനർത്ഥം ഈ S0 മുതൽ ഓരോ S1 S2 S3 S4 വരെയുള്ള കാലതാമസങ്ങൾ തീർച്ചയായും തുല്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ ഇത് ഒരു അനുയോജ്യമായ സാഹചര്യമാണ് കാലതാമസം തുല്യമാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം പക്ഷേ പ്രായോഗികമായി വ്യത്യാസങ്ങൾ കാരണം പരാമീറ്ററിലും പാസിറ്റിക് വ്യതിയാനങ്ങളിലും കാലതാമസത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും പക്ഷേ വയറുകൾ തുല്യമാക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസിറ്റിക്സ് parasitics the R and C ആർ സി എന്നിവ പരിഗണിക്കാം അതിനാൽ നിങ്ങളുടെ വയർ നീളം തുല്യമാക്കൽ പ്രധാന പാരാമീറ്റർ എന്നാൽ ആർസി കാലതാമസ സമവാക്യം ആ അർത്ഥത്തിൽ കൂടുതൽ കൃത്യതയുള്ളതാകാം ഞങ്ങൾ അവയെ തുല്യമാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ 0 സ്കൂ ട്രീ എന്ന് വിളിക്കപ്പെടുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ 0 സ്കൂ ട്രീ കണക്കാക്കുന്നത് എളുപ്പമല്ല ഇത് ബുദ്ധിമുട്ടാണ് ഫാബ്രിക്കേഷൻ സമയത്ത് പരാമീറ്ററിലെ ചില വ്യതിയാനങ്ങൾ വ്യതിചലിക്കും ഒരു യഥാർത്ഥ വൃക്ഷ രൂപകൽപ്പനയിലെ ഈ 0 ശൂന്യമായ സവിശേഷതകൾ ശരിയാണ് അതിനാൽ പ്രായോഗികമായി നിങ്ങൾ സാധാരണയായി ആഗ്രഹിക്കുന്നത് കൃത്യമായി 0 വക്രതയല്ല മറിച്ച് പരിമിതമായ സ്കൂ നമുക്ക് ഒരു ക്ലോക്ക് ട്രീ ഉണ്ടായിരിക്കാം അവിടെ നിശ്ചിത പരമാവധി പരിധികളിലേക്ക് വക്രത പരിമിതപ്പെടുത്തിയിരിക്കുന്നു ബാക്കെൻഡ് ഡിസൈൻസമയത്ത് നമുക്ക് സൈഗ്ഓഫ് എന്ന ഒരു പ്രക്രിയ ഉണ്ടെന്ന് നമുക്ക് പിന്നീട് കാണാം അതിനർത്ഥം എല്ലാ സമയ കാലതാമസങ്ങളും സർക്യൂട്ടിലെ പ്രസക്തമായ സമയ കാലതാമസവും ഞങ്ങൾ വിശകലനം ചെയ്യുന്നു എന്നാണ് പരമാവധി കാലതാമസം നിശ്ചിത പരിധിക്കുള്ളിലാണെങ്കിൽ എല്ലാം ക്രമത്തിലായിരിക്കും അതിനാൽ ഈ കെട്ടിച്ചമച്ച മോഡൽ അവസാന സൈൻഓഫിന് മാത്രമല്ല മരത്തിന്റെ നീളം കുറയ്ക്കാൻ സഹായിക്കുന്ന ഇടക്കാല ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കുന്നു നിങ്ങൾ ഒരു ക്ലോക്ക് ട്രീ കൃത്യമായി 0 ചരിവുള്ളതാക്കാൻ കാണുമെന്നതിനാൽ നിങ്ങൾക്ക് ചില മരങ്ങളുടെ ദൈർഘ്യം കൂടുതലാക്കേണ്ടി വന്നേക്കാം ഒരു സാങ്കൽപ്പിക ഉദാഹരണം നമുക്ക് എടുക്കാം 1 പോയിന്റ് മുതൽ നിങ്ങൾ ഒരു പോയിന്റ് എസ് 1 വരെയും മറ്റൊരു ലൈൻ എസ് 2 വരെയും വരയ്ക്കുന്നു അതിനാൽ ദൈർഘ്യം തുല്യമാണെന്ന് തോന്നുമെങ്കിലും ചില പരസിറ്റിക്സ് പ്രതിരോധവും കപ്പാസിറ്റൻസ് ഇഫക്റ്റുകളുംശരിയായിരിക്കാം കൂടാതെ ഈ പരസിറ്റിക്സ് രണ്ട് വരികൾക്കും ഒരുപോലെയല്ല കാരണം ഇത് ആ വരികൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന വരികളെ ആശ്രയിച്ചിരിക്കുന്നു വ്യത്യസ്ത പാളികളിലുടനീളം ഒരേ പാളി മറ്റ് നിരവധി ഘടകങ്ങൾ ഉണ്ട് അതിനാൽ വയർ ദൈർഘ്യം ഒന്നുതന്നെയാണെങ്കിലും കപ്പാസിറ്റീവ് റെസിസ്റ്റീവ് ഇഫക്റ്റുകൾ വ്യത്യസ്തമായിരിക്കാം അതിനാൽ രണ്ടാമത്തെ വരിയുടെ കാലതാമസം സംഭവിക്കാം ഈ വരിയുടെ കാലതാമസം ഡെൽറ്റ 1 ആണെന്നും ഈ വരി ഡെൽറ്റ 2 ആണെന്നും പറയാം അങ്ങനെ സംഭവിക്കാം ഡെൽറ്റ 1 ഡെൽറ്റ 2 നെക്കാൾ വലുതാണ് അതിനാൽ തുല്യമാക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് സ്നക്കിംഗ്എന്ന് വിളിക്കേണ്ടി വന്നേക്കാം ഇത് ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് അതായത് ഈ വയർ ഇതുപോലെ സ്ഥാപിക്കുന്നതിനുപകരം ഒരുപക്ഷേ ഞങ്ങൾ ഇത് ഇങ്ങനെ വെച്ചേക്കാം ഈ വയർ നീളം കൂടുതൽ നീട്ടുക അതിനാൽ 2 കാലതാമസങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് ഡെൽറ്റ 1 ഡെൽറ്റ 2 എന്നിവ ഏകദേശം തുല്യമായി വലത് മികച്ചതാക്കാൻ ശ്രമിക്കുക അതിനാൽ ഇവിടെ കെട്ടിച്ചമച്ച പ്രശ്നത്തെ ചിലപ്പോൾ ബിഎസ്ടി ബൌണ്ടഡ് സ്കേവ് ട്രീ പ്രശ്നംഎന്നും ഉപയോഗപ്രദമായ സ്ക്യൂ എന്നാണ് അർത്ഥമാക്കുന്നത് ഞങ്ങൾ സ്വേച്ഛാധികാര പോയിന്റുകളിലുടനീളം ശൂന്യതയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത് ആഗോള ശൂന്യമാണ് പക്ഷേ പ്രായോഗികമായി പ്രാദേശിക ചരിവുകൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് പ്രാദേശിക ചരിവ് കൈകാര്യം ചെയ്യാനും അവ കുറയ്ക്കാൻ ശ്രമിക്കാനും കഴിയുമെങ്കിൽ അത് വളരെ ഉയർന്ന ക്ലോക്ക് ഫ്രീക്വൻസിഉപയോഗിച്ച് ഒരു സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു പരിഹാരം ഞങ്ങൾക്ക് നൽകും ആഗോള സ്ക്യൂആ കാര്യത്തിൽ അത്ര പ്രധാനമായിരിക്കില്ല ഇപ്പോൾ ആധുനിക ക്ലോക്ക് ട്രീ സമന്വയത്തിലേക്ക് വരുന്നു നടപ്പിലാക്കുന്ന അടിസ്ഥാന ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചില നിർദ്ദിഷ്ട അൽഗോരിതങ്ങൾ ഈ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട അൽഗോരിതങ്ങൾ നമുക്ക് നോക്കാം അതിനാൽ ആധുനിക ക്ലോക്ക് ട്രീ സിന്തസിസിനായി 2 പ്രധാന ആവശ്യകതകൾ ഉണ്ട് ആദ്യ ആവശ്യം തീർച്ചയായും താരതമ്യേന എളുപ്പമാണ് ഈ ചെരിവ് 0 അല്ലെങ്കിൽ പരിമിതമായ പരിധിയുള്ള ഒരു മരം എങ്ങനെ നിർമ്മിക്കാമെന്നും വ്യത്യാസങ്ങളുടെ സാന്നിധ്യത്തിൽ എങ്ങനെ ബഫറുകൾ അവതരിപ്പിക്കാമെന്നും ഞങ്ങൾ ഇത് വിശദമായി നോക്കും അതിനാൽ ക്ലോക്ക് ട്രീയ്ക്ക് കുറഞ്ഞ ചരിവ് ഉണ്ടായിരിക്കണം അതിനാൽ എല്ലാ തുടർച്ചയായ ബ്ലോക്കുകളിലേക്കും സിഗ്നൽ എത്തിക്കുമ്പോൾ ഇതാണ് പ്രധാന ആവശ്യം അതിനാൽ ക്ലോക്ക് ട്രീ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള വിവിധ വഴികൾ ഞങ്ങൾ നോക്കും അതായത് ഈ ചരിവ് 0 അല്ലെങ്കിൽ 0 അതിരുകളോട് വളരെ അടുത്താണ് അതിനാൽ ഞങ്ങൾ ക്ലോക്ക് ട്രീ സിന്തസിസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനാൽ ഇത് 2 ഘട്ടങ്ങളിലാണ് നടത്തുന്നത് അതിനാൽ ഞങ്ങൾ ഇനീഷ്യൽ ട്രീ നിർമ്മിക്കുന്നു അതിനാൽ ഒന്നുകിൽ ഞങ്ങൾ സിങ്ക് ലൊക്കേഷനുകൾ പരിഗണിക്കാതെ മരം നിർമ്മിക്കുന്നു സിങ്ക് ലൊക്കേഷനുകളിൽ നിന്ന് സ്വതന്ത്രമായ ഡിസൈനുകൾക്ക് ബാധകമായ വളരെ പൊതുവായ വൃക്ഷമാണിത് രണ്ടാമത്തെ ബദൽ സിങ്ക് ലൊക്കേഷനുകൾ ടോപ്പോളജി എംബഡിംഗ്sink locations topology and embeddingഎന്നിവ പരിഗണിക്കാം രണ്ടും ഞങ്ങൾ ഒരുമിച്ച് പരിഗണിക്കുന്നു മൂന്നാമതായി ഞങ്ങൾ അവയെ 2 പ്രത്യേക ഘട്ടങ്ങളായി പരിഗണിക്കുന്നു ഒരു ക്ലോക്ക് ട്രീ ഇതിനകം നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഉൾപ്പെടുത്തലിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആ ഗ്രിഡ് ഘടന പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ആദ്യം ഒരു ക്ലോക്ക് ട്രീ ഉണ്ടാക്കുന്നു അതിനുശേഷം എനിക്ക് ഒരു മെഷ് അല്ലെങ്കിൽ ഗ്രിഡ് ഉണ്ട് ക്ലോക്ക് ട്രീ ഓടിക്കുന്നത് മെഷും എംബെഡിംഗും അർത്ഥമാക്കുന്നത് ഞാൻ ഗ്രിഡ് ടാപ്പുചെയ്യണം എന്നാണ് എന്റെ ക്ലോക്ക് സിഗ്നലുകൾ ശരിയായി എടുക്കാൻ ഉചിതമായ പോയിന്റുകൾ അതിനാൽ നിങ്ങൾ ഇത് ചെയ്ത ശേഷം അതിനാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലോക്ക് ബഫറുകൾതിരുകാനും നിങ്ങൾക്ക് നിരവധി സ്കേവ് ഒപ്റ്റിമൈസേഷനുകൾ നടത്താനും കഴിയും ഞങ്ങൾ പറഞ്ഞ ആ സ്നാക്കിംഗ് ഉദാഹരണം പോലെ മറ്റുള്ളവയുമായി പൊരുത്തപ്പെടുന്നതിന് നിങ്ങൾ ഒരു വയർ ചെറുതായി നീട്ടേണ്ടി വന്നേക്കാം അതിനാൽ പ്രായോഗികമായി ഉപയോഗിക്കുന്ന ചില ക്ലോക്ക് റൂട്ടിംഗ് അൽഗോരിതങ്ങൾ നമുക്ക് നോക്കാം അതിനാൽ ഈ ക്ലോക്ക് റൂട്ടിംഗ് അൽഗോരിതങ്ങൾക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യം ഈ ചരിവ് കുറയ്ക്കുക എന്നതാണ് അതായത് ക്ലോക്ക് ഉറവിടം മുതൽ സിങ്ക് വരെ എന്റെ ക്ലോക്ക് സിഗ്നൽ എങ്ങനെ വിതരണം ചെയ്യാം എന്റെ ഇന്റർ കണക്ഷൻ ദൈർഘ്യങ്ങൾ എല്ലാം നീളം നന്നായി തുല്യമാണെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പുവരുത്താനാകും ആദ്യ സമീപനം ഇന്റർ കണക്ഷൻ ദൈർഘ്യം മാത്രം പരിഗണിക്കും എന്നാൽ പിന്നീട് ഇന്റർ കണക്ഷൻ ദൈർഘ്യം മാത്രമല്ല പരസിറ്റിക്സ് കണക്കാക്കാം യഥാർത്ഥ ദൂരം അളക്കാനോ ദൂരം കണക്കാക്കാനോ കഴിയും നിങ്ങൾക്ക് കാലതാമസം കണക്കാക്കാം ദൂരം പാരസിറ്റിക്സ് എന്നിവ അടിസ്ഥാനമാക്കി ഞങ്ങൾക്ക് കാലതാമസം കണക്കാക്കാം കാലതാമസം സന്തുലിതമാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം ശരിയാണ് അതിനാൽ ആദ്യത്തെ 2 അൽഗോരിതം ഉപയോഗിച്ച് ആരംഭിക്കാൻ ഞങ്ങൾ സംസാരിച്ചത് അവർ ദൂരം മാത്രം നോക്കുന്നതായിരിക്കും അവർ ദൂരങ്ങൾ തുല്യമാക്കാൻ അല്ലെങ്കിൽ പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കും ശരിയാണ് അതിനാൽ ഞങ്ങൾ നിരവധി അൽഗോരിതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവയിൽ ആദ്യ 4 ഉദാഹരണമായി അവർ ദൈർഘ്യം കുറയ്ക്കാൻ ശ്രമിക്കുന്നു അവസാനത്തേത് കാലതാമസത്തിന്റെ കൂടുതൽ കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെ യഥാർത്ഥ 0 ക്ലോക്ക് സ്കുവിലേക്ക് നോക്കുന്നു അതിനാൽ നമുക്ക് ഇത് ഓരോന്നായി നോക്കാം ശരിയാണ് നമ്മൾ നോക്കുന്ന ആദ്യ അൽഗോരിതം H ട്രീ അധിഷ്ഠിത അൽഗോരിതംH tree based algorithmഎന്ന് പരാമർശിക്കുന്നു H ട്രീ അടിസ്ഥാനമാക്കിയുള്ള അൽഗോരിതം കാണുക ഇംഗ്ലീഷ് അക്ഷരമാലയിലെ H എന്ന അക്ഷരത്തിൽ നിന്നാണ് പേര് വന്നത് അതിനാൽ ക്ലോക്ക് റൂട്ടിംഗ് നടക്കുന്നത് H എന്ന അക്ഷരം പോലെയാണ് എനിക്ക് ഇതുപോലൊരു H ഉണ്ടെന്ന് കരുതുക ഇതാണ് ഞാൻ പരാമർശിക്കുന്നത് ഇത് ഒരു മരം പോലെയാണ് ഞാൻ എന്റെ ക്ലോക്കിന് ഭക്ഷണം നൽകുന്നു എനിക്ക് എന്റെ ക്ലോക്ക് ലഭിക്കുന്നു ഈ 4 സ്ഥലങ്ങളിൽ അതിനാൽ ഈ H യുക്തിപരമായി പറഞ്ഞാൽ 4 ചൈൽഡ് നോഡുകളുള്ള ഒരു മരം പോലെയാണ് ഇപ്പോൾ ഈ ടെർമിനൽ പോയിന്റുകളിൽ ഓരോന്നിനും ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതുപോലുള്ള ഒരു ചെറിയ H നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ അവയിൽ ഓരോന്നിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു 4 പോയിന്റുകൾ ലഭിക്കും അതിനാൽ അവയിൽ നിന്ന് നിങ്ങൾക്ക് 4 ചൈൽഡ് നോഡുകളുംമറ്റും ലഭിക്കും അതിനാൽ നിങ്ങളുടെ ക്ലോക്ക് ട്രീ ഇതുപോലെ കാണപ്പെടും ഇതിനെ എ എന്ന് വിളിക്കുന്നു ഇത് ഒരു ബൈനറി ട്രീഅല്ല ഇത് 4 ആരി ട്രീ ആണ് അതായത് ഓരോ ശീർഷകത്തിനും 4 കുട്ടികൾ വരെ ഉണ്ട് കൂടാതെ 1 പരിമിതിയാണ് നിങ്ങൾ വിവിധ മേഖലകളിൽ കയറുമ്പോൾ ലെവലുകൾ ഇത് നിങ്ങളുടെ ലെവൽ 1 ആണെന്ന് കരുതുക ഇത് ലെവൽ 2 ആണ് ലെവൽ 3 നിങ്ങൾ പോകുന്നു അതിനാൽ ലെവലിൽ എനിക്ക് ഉണ്ടാകും നിങ്ങൾക്ക് പവർ ഐ നോഡുകളിലേക്ക് 4 പരിശോധിക്കാം ആദ്യ ലെവലിൽ 4 നോഡുകൾ ഉണ്ട് 4 പവറിന് 1 രണ്ടാമത്തെ ലെവലിൽ 16 നോഡുകൾ ഉണ്ട് 4 മുതൽ ലെവൽ 2 വരെ മൂന്നാമത്തെ ലെവലിൽ 64 നോഡുകൾ ഉണ്ടാകും പവർ 3 മുതൽ 4 വരെ അതിനാൽ ഇത്തരത്തിലുള്ള ഒരു ക്ലോക്ക് നെറ്റ്വർക്ക് നിങ്ങൾക്ക് പവർ ഐ നോഡുകളിലേക്ക് 4 ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് നിർമ്മിക്കാനാകൂ പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്ന ചില ഗുണങ്ങളുണ്ട് നമുക്ക് സ്ലൈഡുകളിലേക്ക് മടങ്ങാം അതിനാൽ ഈ സമീപനത്തിൽ ക്ലോക്ക് ഉറവിടത്തിൽ നിന്ന് ഓരോ ടെർമിനൽ പോയിന്റുകളിലേക്കോ സിങ്കുകളിലേക്കോ ഉള്ള ദൂരം ജ്യാമിതീയ ദൂരം തുല്യമാണെന്ന് ഉറപ്പുനൽകുന്നു അയഞ്ഞ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ക്ലോക്ക് ടെർമിനലുകൾ ആവശ്യമുള്ള സാഹചര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉപയോഗിക്കാനാകും കൂടാതെ അവയെല്ലാം ചിപ്പ് ഉടനീളം ക്രമീകരിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു ഗേറ്റ് അറേ അല്ലെങ്കിൽ ഒരു FPGA എന്നാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് 2 ലെവലിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ഗ്രിഡ് അല്ലെങ്കിൽ മെഷ് ഫീഡ് ചെയ്യുന്ന ഒരു ക്ലോക്ക് ട്രീ ഉണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ ലെവൽ ട്രീയായി എച്ച് ട്രീലഭിക്കും അതിനാൽ ഇത് പതിവായി ക്ലോക്കിന് സാധാരണ സ്ഥലങ്ങളിലേക്ക് ഭക്ഷണം നൽകുന്നു ഇത് ഗ്രിഡുമായി ബന്ധിപ്പിക്കും ഇത് ഒരു വഴിയാണ് അതിനാൽ വിവിധ പ്രദേശങ്ങളിലേക്കോ മേഖലകളിലേക്കോ സിഗ്നൽ കൊണ്ടുപോകാനും ഇത് ഉപയോഗിക്കാം അതിനാൽ നമുക്ക് ജ്യാമിതിയുടെ അടിസ്ഥാനത്തിൽ ഈ H രൂപങ്ങൾ നോക്കാം അതിനാൽ ഇവിടെ ഗ്രിഡ് ലൈനുകൾ കാണിച്ചിരിക്കുന്നു ഈ H സെന്റർ പോയിന്റുകൾ ടെർമിനൽ പോയിന്റുകൾcentre points the terminal pointsഇങ്ങനെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയട്ടെ അപ്പോൾ ഈ പോയിന്റ് മുതൽ ഓരോ ടെർമിനൽ പോയിന്റുകൾ വരെ ദൂരം 1 2 3 ആയിരിക്കും 4 5 6 7 നിങ്ങൾ കേന്ദ്ര പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അത് 4 1 2 3 4 ആയിരിക്കും അതിനാൽ ഒന്നുകിൽ സെന്റർ പോയിന്റിൽ നിന്നോ അല്ലെങ്കിൽ ഈ എൻട്രി പോയിന്റിൽനിന്നോ ഇവയിൽ ഓരോന്നിലേക്കുള്ള ദൂരം നോഡുകൾ 7 ആയിരിക്കും അതിനാൽ നിങ്ങൾ ഈ H മറ്റൊരു തലത്തിലേക്ക് നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൂരം കണക്കാക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ദൂരം 19 ആയിരിക്കും 1 2 3 4 5 6 7 8 9 10 11 12 15 16 17 18 19 ഇത് പോലെ അതിനാൽ ഈ പോയിന്റിൽ നിന്ന് ഓരോ ടെർമിനലുകളിലേക്കും വയറിന്റെ മൊത്തം നീളം തുല്യമാണെന്ന് ഉറപ്പുനൽകുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇത് 4 ന്റെ ഏത് ശക്തിയിലും സാമാന്യവൽക്കരിക്കാനാകും ഇത് 4 ടെർമിനലുകൾ 16 ടെർമിനലുകൾ അതിനാൽ നിങ്ങൾക്ക് പോകാം ഇതുപോലെ 64 ടെർമിനലുകൾ 256 ടെർമിനലുകൾ അതിനാൽ നിങ്ങൾ മുകളിലേക്കും മുകളിലേക്കും പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ടെർമിനലുകൾ വളരെ പതിവായി ചിപ്പിലുടനീളം വ്യാപിക്കുന്ന ഒരു ഘടന നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ക്ലോക്ക് ടെർമിനലുകൾ ചിപ്പിലുടനീളം പതിവായി വിതരണം ചെയ്യേണ്ട ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ഈ രീതി അല്ലെങ്കിൽ ഈ തത്വം ഉപയോഗിക്കാം ഇപ്പോൾ ഈ കണക്ഷനോ റൂട്ടിംഗോ നിങ്ങൾക്ക് പരിശോധിക്കാനാകുന്ന മറ്റൊരു കാര്യം എല്ലാ വയറുകളും ഒരേ ലോഹ പാളിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ തിരശ്ചീനമായി ലംബമായി ലംബമായി 2 ലെയറുകളിൽ നിന്ന് തിരശ്ചീനമായി നീങ്ങേണ്ടതില്ല ഇത് പൂർണ്ണമായും പ്ലാനർ റൂട്ടിംഗ്ആണ് നിങ്ങൾ ഒരൊറ്റ വിമാനത്തിൽ നടത്തുന്ന മുഴുവൻ കണക്ഷനും ഉറവിടത്തിൽ നിന്ന് ഓരോ സിങ്കിലേക്കും തുല്യ ദൂരം ഉറപ്പുനൽകുന്നു ഇത് എച്ച് ട്രീയ്ക്ക് ഒരു വലിയ നേട്ടമാണ് അതിനാൽ നിങ്ങൾ ഇവിടെ എന്താണ് ഉറപ്പ് നൽകുന്നത് ദൂരത്തിന്റെ കാര്യത്തിൽ കൃത്യമായി 0 വക്രമാണ് ഇവിടെ ഞങ്ങൾ പരസിറ്റിക്സ് അവഗണിക്കുകയാണ് തൽക്കാലം RC മരത്തിന്റെ സമമിതി കാരണം വയറുകളുടെ നീളവുമായി ബന്ധപ്പെട്ട് കൃത്യമായ 0 ചരിവ് ഞാൻ പറഞ്ഞതുപോലെ ഈ എച്ച് ട്രീ സാധാരണയായി മുഴുവൻ ക്ലോക്ക് വിതരണത്തിനും ഉപയോഗിക്കില്ല ഇത് ടോപ്പ് ലെവൽ ക്ലോക്ക്വിതരണത്തിന് ഉപയോഗിക്കുന്നു മുകളിലത്തെ നിലയിൽ ഈ H വൃക്ഷത്തിന് ആ ഗ്രിഡ് ഘടനയും ഗ്രിഡിന് രണ്ടാം തലത്തിൽ സർക്യൂട്ടിന്റെ മറ്റ് പോയിന്റുകളോ മറ്റ് പിനുകളോഫെഡ് നൽകാൻ കഴിയും ഇപ്പോൾ പാളിയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ എച്ച് ട്രീയുടെ രൂപകൽപ്പന നശിപ്പിക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഒരു പ്രത്യേക ലോഹ പാളിയിൽ സ്ഥാപിക്കേണ്ട ഒരു ക്ലോക്ക് ട്രീ സ്ഥാപിക്കുമ്പോഴെല്ലാം തടസ്സങ്ങളില്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈനുകൾ ക്രമീകരിക്കാൻ കഴിയും സിങ്ക് ലൊക്കേഷനുകളും സിങ്ക് കപ്പാസിറ്റൻസുകളും വ്യത്യസ്തമാണെങ്കിൽ എച്ച് ട്രീയുടെ രൂപകൽപ്പന വ്യത്യസ്തമായിരിക്കും കാരണം നിങ്ങൾ ഇവിടെ പറയുന്നത് 0 ദൂരം സംബന്ധിച്ച് മാത്രമാണ് ശരി ഇപ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ഒരു എച്ച് പരിഗണിക്കുന്നുവെന്ന് കരുതുക അതിനാൽ ഈ 4 പോയിന്റുകളെ ബന്ധിപ്പിക്കുന്ന ഒരു എച്ച് ട്രീ പോയിന്റ് വരുന്ന കേന്ദ്ര പോയിന്റ് ഇതാണ് എന്ന് കരുതുക ഇപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങൾ എല്ലാ ലയനുകളും ഒരേ ലെയറിലാണ് സ്ഥാപിക്കുന്നത് അതിനാൽ വയറുകൾ തിരശ്ചീനമായും ലംബമായും മാത്രം നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല അതിനാൽ എനിക്ക് വേണമെങ്കിൽ വയറുകളും ഡയഗണലായി പ്രവർത്തിപ്പിക്കാൻ കഴിയും അതിനാൽ ഈ അറ്റത്ത് 1 2 3 4 പോയിന്റുകൾ ബന്ധിപ്പിക്കുക എന്നതായിരുന്നു എന്റെ പ്രധാന ആവശ്യങ്ങൾ ചെറുതാകുക കാരണം ഇത് ഇതായിരുന്നു ഇത് a ഇത് b ആണെങ്കിൽ ഇത് b സ്ക്വയറിന്റെ ചതുരത്തിന്റെ സ്ക്വയർ റൂട്ട്ആയിരിക്കും പൈതഗോറസ് സിദ്ധാന്തം ഇത് ചെറുതായിരിക്കും അതിനാൽ എനിക്ക് ഹ്രസ്വ കണക്ഷൻ വേണമെങ്കിൽ എനിക്ക് അത് ഒരു എച്ച് എന്നതിനുപകരം ഒരു എക്സ് ആക്കി മാറ്റാം അതിനാൽ ഞങ്ങളുടെ അടുത്ത ഇതര അൽഗോരിതം ഇതിനെ എക്സ് ട്രീഎന്ന് വിളിക്കുന്നു H ടൈപ്പ് ഘടനയ്ക്ക് പകരം ഒരേ കാര്യം ഞങ്ങൾ ഇതുപോലുള്ള ഒരു X തരം ഘടനയാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഞാൻ ഒരു വലിയ X ഉപയോഗിക്കുന്നു ഓരോ ടെർമിനൽ പോയിന്റുകളിലും ഞാൻ ചെറിയ X കൾ ഉപയോഗിക്കുന്നു അവയിൽ ഓരോന്നിലും ഞാൻ അതുപോലുള്ള ചെറിയ X കൾ ഉപയോഗിക്കും ശരിയാണ് അതിനാൽ തിരശ്ചീനവും ലംബവും ലംബമല്ലാത്തതുമായ വയറുകൾ ലേ ലേ ഔട്ട് ചെയ്യാൻ ഞങ്ങളെ അനുവദിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഇത് മികച്ചതായി തോന്നുന്നു വയർ ദൈർഘ്യം കുറവാണെന്ന് ആദ്യ നോട്ടത്തിൽ നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് ഒരു എച്ച് ട്രീയിൽ നിങ്ങൾ കാണുന്നത് പോലെ വയറുകൾ വളരെ സാധാരണമായിരുന്നു അവ സമമിതിയായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ ലൈനിനും ഈ ചെറിയ വരയ്ക്കും ഇടയിൽ കാണുന്നു വയറുകൾ സമാന്തരമായി അടുക്കുന്നു അതിനാൽ അവയ്ക്കിടയിൽ കൂടുതൽ കപ്പാസിറ്റൻസുകൾ ഉണ്ടാകും പക്ഷേ ഈ വയർക്കിടയിൽ ഈ വയർ കപ്പാസിറ്റൻസ് വളരെ കുറവായിരിക്കും അവ വളരെ അകലെയാണ് അതിനാൽ ചരിഞ്ഞ തരത്തിലുള്ള കണക്ഷൻ കാരണം പരസ്പരം അടുത്ത് പ്രവർത്തിക്കുന്ന വയറുകൾ തമ്മിലുള്ള കപ്പാസിറ്റൻസ് X ന്റെ 1 സെഗ്മെന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെടും അതിനാൽ ആ അർത്ഥത്തിൽ ഇത് കൃത്യമായി 0 ചരിവുകളായിരിക്കില്ല നിങ്ങൾ R C എന്നിവയുമായി പരസിറ്റിക്സ് പരിഗണിക്കുകയാണെങ്കിൽ ഇത് ഒരു പോരായ്മയാണ് നല്ലത് പക്ഷേ വയറുകളുടെ സാമീപ്യം കാരണം ക്രോസ് ടോക്ക് ഉണ്ടാകാം അതിനാൽ H മരങ്ങൾ പോലെ വീണ്ടും H മരങ്ങൾ അടുത്ത തലത്തിലേക്ക് ഫെഡ് നൽകുന്നതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള മരം സൃഷ്ടിക്കുന്നത് പോലുള്ള പ്രത്യേക ഘടനയ്ക്കായി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതിനാൽ ഈ H X 2 ഇതര വഴികൾ സാധാരണയായി ആളുകൾ ചിപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിന് മുമ്പ് ആദ്യ ലെവൽ ക്ലോക്ക് ട്രീ നിർമ്മിക്കുന്നു അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണ നമ്പർ 29 ന്റെ അവസാനത്തിലേക്ക് വരുന്നു അതിനാൽ ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിൽ ക്ലോക്ക് ട്രീ റൂട്ടിംഗിന്റെ മറ്റ് നടപ്പാക്കലുകൾ ഞങ്ങൾ തുടരുന്നു